സ്ലൈഡ് നോക്കുക എല്ലാവർക്കും സ്വാഗതം ഡിസൈൻ തിങ്കിംഗ്ലേക്ക് സ്വാഗതം ഡിസൈൻ തിങ്കിംഗ് എന്നതിൻറെ ഈ പ്രധാനപ്പെട്ട മൊഡ്യൂൾ അവതരിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട് ഇത് ഡിസൈൻ തിങ്കിംഗ് എന്നതിൻറെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് ശരിയായാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഡിസൈൻ തിങ്കിംഗ് എന്നതിൻറെ ഹൃദയഭാഗമാണ് തന്മയിപ്പെടൽ അതാണ് ഡിസൈൻ തിങ്കിംഗ് എന്നതിൻറെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മറ്റുള്ളവരുടെ അനുഭവം നമ്മളുടെ അനുഭവമായി വിചാരിക്കണം തന്മയിഭവപ്പെടാനുള്ള ഒരു വഴി നിങ്ങൾ മറ്റുള്ളവരുടെ അനുഭവത്തിലൂടെ സഞ്ചരിക്കുക നിങ്ങൾ രണ്ടു റോളുകൾ ചെയ്യേണ്ടി വരുന്നതാണ് ഒന്ന് നിങ്ങൾ നിങ്ങൾ ആണ് കൂടാതെ മറ്റൊരു വ്യക്തിയുടെ അനുഭവത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ ആണെന്ന് വിചാരിച്ചു അതിലൂടെയുള്ള യാത്രയാണ് തന്മയിഭവപ്പെടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ട് ഉദാഹരണങ്ങൾ ideo com എന്ന ഡിസൈൻ തിങ്കിംഗ് സ്ഥാപനത്തിൽ നിന്ന്ലഭിച്ചതാണ് 1 വെബ്സൈറ്റ് മുഖാന്തരം ലഭിച്ചതാണ് അടുത്തത് വീഡിയോ മുഖാന്തരം ലഭിച്ചതാണ് എങ്ങനെയാണ്എമർജൻസി റൂം രോഗികളെ സഹായിക്കാൻ സാധിക്കുക എമർജൻസി റൂംഎന്നത് ആശ്വാസം കിട്ടുന്ന ഒരു സ്ഥലമാണ് ആംബുലൻസ് വരുന്നു അതിൽനിന്ന് stretcher എടുത്ത് രോഗികളെ എമർജൻസി റൂംലേക്ക്കൊണ്ടുപോകുന്നു എങ്ങനെയാണ് അങ്ങനെ കഴിയുന്ന ആളുകളെ സഹായിക്കുവാൻ സാധിക്കുക അതിനുവേണ്ടി അനുഭവങ്ങൾ നമ്മുടെ അനുഭവം ആണെന്ന് വിചാരിക്കേണ്ടി വരുന്നതാണ് വേദനയുടെ ആ ഘട്ടത്തിലൂടെ പോവുക എളുപ്പമല്ല എന്നിരുന്നാലും ആ സമയത്ത് ഉണ്ടാവുന്ന വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എളുപ്പവഴിഅത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവരുമായി അഭിമുഖം നടത്തുക എന്നിട്ട് സത്യം കണ്ടെത്തുക അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടാവുന്നത് ഉണ്ടായത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പക്ഷേ ideo ടീമിൻറെ ഉത്തരം നോ എന്നായിരുന്നു ടീമംഗങ്ങൾ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോയി എന്നിട്ട് എമർജൻസി റൂം രോഗിയെ പോലെ വീഡിയോ റെക്കോർഡ് ചെയ്തു ഒരാൾ രോഗിയായിഅഭിനയിച്ചു മറ്റുള്ളവരോട്ഡ്ഹോസ്പിറ്റലിലെ മറ്റുള്ള അംഗങ്ങൾ ആയിട്ട് അഭിനയിച്ചു കാണിക്കുവാൻ ആവശ്യപ്പെട്ടു അയാളെ ആംബുലൻസിൽ നിന്ന് ചക്ര കസേരയിൽ താഴെയിറക്കി ഞാൻ നേരത്തെ പറഞ്ഞപോലെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു അയാളെ ആംബുലൻസ് നിന്ന് എമർജൻസി റൂം ലേക്ക് കൊണ്ടുപോകുന്ന രംഗങ്ങൾ റെക്കോർഡ് ചെയ്തു ഡോക്ടർ അറ്റൻഡർ തുടങ്ങിയ ആളുകൾ വന്നിട്ട് രോഗിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു ഞാനിപ്പോൾ അനുഭവത്തിലൂടെ കടന്നു പോയിരിക്കുന്നു ക്യാമറഎന്താണ് കണ്ടത് എന്നത് കാണാൻ ആഗ്രഹമുണ്ട് മുഴുവൻ വീഡിയോയും അവർ കണ്ടു അധികസമയവും എമർജൻസിroom ൻറെ മേൽക്കൂരയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ശരിയല്ലേ വീഡിയോയും അവർ കണ്ടു ഒരു രോഗിക്ക് അധിക സമയവും എമർജൻസി room ൻറെ മേൽക്കൂരകണ്ടു കിടക്കേണ്ടി വരുന്നു അത് വളരെ വലിയ പ്രശ്നമാണ് മരുന്നു കുത്തിവയ്ക്കുക ആണെങ്കിലും ദുഃഖമാണെങ്കിലും രോഗിക്ക് മേൽക്കൂര കണ്ടു കിടക്കേണ്ടി വരുന്നു ഓപ്പറേഷൻ നടക്കുകയാണെങ്കിലുംമറ്റെന്തു നടക്കുകയാണെങ്കിലും രോഗിക്ക് മേൽക്കൂരകണ്ടു കിടക്കേണ്ടി വരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത് ഈ അനുഭവം ആണ് ഉണ്ടായത് ഇങ്ങനെ മേൽക്കൂര കണ്ടുകിടക്കേണ്ടി വരുന്നു എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുവാൻ സാധിക്കുക ഇതാണ് പ്രശ്ന സ്റ്റേറ്റ്മെൻറ് ഈ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് പല പരിഹാരമാർഗ്ഗങ്ങളും നിർദ്ദേശിക്കാവുന്നതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കഥ Ideo ബ്ലോഗ് share വീഡിയോ ആണ് Health care കേസുമായി ബന്ധപ്പെട്ടാണ് മുതിർന്ന പൌരന്മാരെ സഹായിക്കാൻ തീരുമാനിച്ചു അവർ 60 വയസ്സിനുമുകളിൽ പ്രായമുള്ള മുതിർന്ന പൌരന്മാരെ സഹായിക്കുവാൻ തീരുമാനിച്ചു എങ്ങനെയാണ് അത്തരത്തിലുള്ള ആളുകൾ സഹായിക്കാൻ സാധിക്കുക അത് ഒരു എമർജൻസി കേസ് അല്ല അത് ദൈനംദിന ജീവിതത്തിലെ സംഭവം മാത്രമാണ് അതുകൊണ്ട് അവർ 60 വയസ്സിനുമുകളിൽ പ്രായമുള്ള ഒരു ഒരു വനിതയെ ഫോണിൽ വിളിച്ചു എന്നിട്ട് ചോദിച്ചു മാഡം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് ഞങ്ങൾ ഡിസൈൻ തിങ്കിംഗ് ടീമാണ് എങ്ങനെ നിങ്ങളെ സഹായിക്കും എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുക നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണ് ഉത്തരം ഇതായിരുന്നു നല്ല പോലെ ജീവിക്കുന്നു എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല യാതൊരു പ്രശ്നവുമില്ല ആ ഉത്തരം കേട്ട് അവർ ശരിക്കും ആ ഉത്തരത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വീണ്ടും ചോദിച്ചു മാഡം ഞങ്ങൾ വന്നിരിക്കുന്നത്നിങ്ങളെ സന്ദർശിക്കുവാനും നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിക്കാനും നിങ്ങളുടെ ജീവിതം കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോകാനുള്ള ഒരു ഉപായം ഉപദേശിച്ചിട്ട് നിങ്ങളെ സഹായിക്കാൻ കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് മനസ്സിലാക്കിക്കൊട്ടെ അത് സമ്മതിച്ചു അങ്ങനെ അവർ ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ തുടങ്ങി മുഴുവൻ ടീമും അവരുടെ മറ്റുപകരണങ്ങളും ക്യാമറയും Notes മായി അങ്ങോട്ട് വന്നു അവരെല്ലാവരും കൂടി അവരുടെ വീട്ടിലേക്ക് പോയി ഫോൺ മുഖാന്തരം സംസാരിച്ച കാര്യങ്ങൾ അവരെ അറിയിച്ചു അവരെ സഹായിക്കാൻ ആണ് വന്നിരിക്കുന്നത് എന്ന കാര്യം അവരെ അറിയിച്ചു ആ അമ്മ മരുന്നു കഴിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി അവളുടെ കൈവിരലുകൾ വളഞ്ഞതായിരുന്നു വാദം പിടിച്ച് അവളുടെ കൈവിരലുകൾ നേരെ ഉള്ളത് ആയിരുന്നില്ല അതുകൊണ്ട് അവർക്ക് വസ്തുക്കൾ ശരിക്കും പിടിക്കാൻ പറ്റിയിരുന്നില്ല ഇതായിരുന്നു അവരുടെ ആരോഗ്യസ്ഥിതി അവൾ മരുന്നു കുപ്പി എടുത്തു ആ മരുന്നു കുപ്പിയുടെ അടപ്പ് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് ആയിരുന്നു അതു മുകളിൽനിന്ന് press ചെയ്തിട്ട്പിന്നെ തിരിക്കണം അങ്ങനെ ചെയ്യാൻ ഒരു skill ആവശ്യമാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കുപ്പികൾ ഓപൺ ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ് മുതിർന്ന ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ കുപ്പികൾ ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുന്നത് അവരുടെ ആരോഗ്യസ്ഥിതി വെച്ച് അത് ഓപ്പൺ ചെയ്യുവാൻ നല്ല ബുദ്ധിമുട്ടാണ് ഡിസൈൻ തിങ്കിംഗ് ടീം അത് മനസ്സിലാക്കി ഇത് ഇ വയസായ അമ്മൂമ്മക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി ആ ബുദ്ധിമുട്ട് പരിഹരിക്കാനും അമ്മൂമ്മയെ സഹായിക്കുവാനുംതീരുമാനിച്ചു അമ്മൂമ്മയെ നിരീക്ഷിച്ചപ്പോൾ മാത്രമാണ് അമ്മൂമ്മേടെ ബുദ്ധിമുട്ട്മനസ്സിലാക്കുവാൻ സാധിച്ചത് ആ ബോട്ടിൽ ഓപ്പൺ ചെയ്യുവാൻഒരു എളുപ്പവഴി ഉണ്ടാക്കിയെടുക്കണം ഈ രണ്ടു കേസുകളുംideo മറ്റുള്ളവർക്കുവേണ്ടി ഉൾപ്പെടുത്തിയ കേസുകളാണ് സ്ലൈഡ് നോക്കുക മറ്റുള്ള ആളുകൾ എങ്ങനെയുള്ളഅനുഭവത്തിലൂടെ ആണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക അതാണ് തന്മയിപ്പെടൽഎന്ന് കൊണ്ട്ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ആണ് നമ്മുടെ ഒന്നാമത്തെസ്റ്റെപ്പ് സ്ലൈഡ് നോക്കുക Ideo ടീം ആ അമ്മയോട് ചോദിച്ച പോലെ ചോദിച്ചു കൊണ്ട് മാത്രം കാര്യങ്ങൾ മനസ്സിലായി കൊള്ളണമെന്നില്ല പല വ്യക്തികൾക്കും താങ്കളുടെ ബുദ്ധിമുട്ടുകൾ ശരിക്ക് വിശദീകരിക്കുവാൻ സാധിക്കുകയില്ല പക്ഷേഅവർക്ക് സഹായം വേണ്ടിവരും ആ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയാണ്നിരീക്ഷിക്കുന്നത് സ്ലൈഡ് നോക്കുക അതുകൊണ്ട് ആളുകൾ വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള എളുപ്പമാർഗ്ഗം കണ്ടുപിടിക്കണം അതൊരു കാഴ്ച മാർഗ്ഗമാകണം അത്തരത്തിലുള്ള ഒന്നാണ്കസ്റ്റമർ ജേർണി മാപ്പിംഗ് അത് വളരെ എളുപ്പമാണ് ഒരു മാർഗം നിങ്ങളുടെ കസ്റ്റമർഎന്ന വ്യക്തിയെ പറ്റിയുള്ള പരിപൂർണ picture നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതൊരു sticky നോട്ട് ടെക്നിക് ആണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പഴയ വിവരങ്ങളുടെ കൂടെ ആഡ് ചെയ്യാനും പഴയ വിവരങ്ങൾമാറ്റുവാനും സാധിക്കുന്നതാണ് സഹായം വേണ്ട ആളുകളെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതൊരു സ്റ്റിക്കി നോട്ട് ടെക്നിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചില pictures കൂടിചേർക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ഇവിടെ ഒരു കേസ് സ്റ്റഡി അവതരിപ്പിക്കുന്നു എൻറെ നഗരത്തിൽ ഒരുപാട് രണ്ടു ചക്രവണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് പൊടിപടലങ്ങൾ ചൂട് മലിനീകരണം എന്നിവയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നു എന്നാൽ ഹെൽമറ്റ് വയ്ക്കുന്നില്ല നിങ്ങൾ പൊടിപടലങ്ങൾ ചൂട് മലിനീകരണം എന്നിവയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നു എന്നാൽ ഹെൽമറ്റ് വയ്ക്കുന്നില്ല വളരെയധികം ദേഷ്യം പിടിപ്പിച്ചു ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും ഞാൻ ഹെൽമറ്റ് ധരിക്കുവാൻ ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബാഹ്യ സമാനുഭാവംആണ് ഞാൻ രണ്ടു ചക്രവണ്ടി ഉപയോഗിച്ചു ഹെൽമറ്റ് ധരിച്ചിരുന്നു ഞാനെൻറെ കാഴ്ചപ്പാടിലൂടെ മറ്റുള്ളവരുടെ കാര്യം നോക്കി കാണുകയും മറ്റുള്ളവരോട്ഹെൽമറ്റ് ധരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സ്ലൈഡ് നോക്കുക ഇവിടെ കസ്റ്റമർ ജേർണി മാപ്പിംഗ്ഉ ദാഹരണമാണ് ഇവിടെ ഒരു സാങ്കൽപ്പിക കഥാപാത്രം Mrs Avni ഞാൻ അവരെ ഇന്നേവരെ കണ്ടുകിട്ടിയിട്ടില്ല എന്തെല്ലാം ആക്ടിവിറ്റി ആയിരിക്കും അമ്മ ചെയ്യുവാൻ പോകുന്നത് എളുപ്പമാണ് മൂന്ന് ഘട്ടങ്ങളായി വിശകലനംചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ചെയ്യുന്നതിനു മുമ്പ് ഒന്ന് ഇടയ്ക്കുവെച്ച് ഒന്ന് ഒന്ന് ചെയ്തതിനുശേഷം പരിശോധിക്കാം അമ്മഅവർക്കും കുട്ടികൾക്കുള്ള ലഞ്ച് pack ചെയ്യുന്നു രണ്ടാമതായി അമ്മ ചെയ്യുന്ന കാര്യം കുട്ടികളെ പോകാൻ ഒരുക്കുന്നു പിന്നെ ആണ് അവരുടെ കാര്യം നോക്കുന്നത് പിന്നെ സംരക്ഷണം കിട്ടുന്നതിനുവേണ്ടി ഒരു scarf ധരിക്കുന്നു ഹെൽമറ്റ് ധരിക്കുന്നു ഇവിടെ ആദ്യ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം സ്റ്റാറ്റസ് ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ ഉള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യം ഇമോഷണൽ സ്റ്റാറ്റസ് ആണ് അമ്മ ഇത് ചെയ്യുമ്പോൾ എന്തായിരുന്നു അമ്മയുടെ മാനസിക അവസ്ഥ സന്തോഷമായിരിക്കും ദുഃഖം ആയിരുന്നുവോ അതൊന്നും തോന്നിയില്ലേ സ്കൂൾ കുട്ടികളെ ഒരുക്കുമ്പോൾ അമ്മയ്ക്ക് യാതൊരു മാനസിക വികാരങ്ങളും തോന്നിക്കാൻ സാധ്യതയില്ല അമ്മ സന്തോഷവതിയാണ് അടുത്തഘട്ടം ആക്ടിവിറ്റി ഇടയിൽ അമ്മ എന്തൊക്കെ ചെയ്തു എന്ന് പരിശോധിക്കുകയാണ് അമ്മ ഗ്യാരേജ് എന്നതിൽ നിന്ന് വണ്ടി എടുത്തു അതുമായി ബന്ധപ്പെട്ട യാതൊരു വികാരങ്ങളും അവിടെ മനസ്സിൽ ഉണ്ടായിട്ടില്ല ഈ ഘട്ടത്തിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് അമ്മ വണ്ടി ഓടിക്കുകയാണ് പ്രകാശം ചൂട് പൊടിപടലങ്ങൾ എന്നിവയെല്ലാം അമ്മയെ ബാധിക്കും ഞാനവരെ ഈ അഭിമുഖം നടത്തിയ സമയത്ത് ഒന്നും തന്നെ മുഴുവനായി തന്നെ തന്മയിഭാവം പെട്ടിട്ടില്ല ഞാൻ അവരെ ഫീൽഡിൽ വെച്ച് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് എനിക്ക് പ്രകാശം ചൂട് പൊടിപടലങ്ങൾ എന്നിവയെല്ലാം പറ്റി മനസ്സിലാക്കാൻ സാധിക്കും വളരെ അധികം നേരം ഹെൽമറ്റ് ധരിച്ചാൽ അധികം വിയർപ്പ്ഉണ്ടാവുന്നതാണ് അതുപോലെ തലമുടി നഷ്ടപ്പെട്ടു പോകും എൻറെ സ്റ്റുഡൻറ് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് ഹെൽമറ്റ് ധരിച്ചാൽ തലമുടി നഷ്ടപ്പെട്ടു പോകും എന്നതിനെ പറ്റി അമ്മ പല പല സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ട് ഒരുപക്ഷേ അമ്മയുടെ മുടി ശരിക്ക് ഫിറ്റ് ആയിരിക്കുന്നു ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അമ്മയുടെ ഡ്രസ്സ് അങ്ങോട്ടുമിങ്ങോട്ടും നീങ്ങുന്ന ഉണ്ടാവാം വണ്ടി ഓടിക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് Mrs Avni വണ്ടി പാർക്കിംഗ് ചെയ്യാൻ ഉള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യുകയാണ് ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കാം ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ ഭാരം ഉള്ളതാണ് ഹെൽമറ്റ് വെച്ചുകൊണ്ട് ഒരു ഭാരമുള്ള ബൈക്ക് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അമ്മ അമ്മയുടെ scarf എടുത്തു ഹെൽമറ്റ് എടുത്തു അമ്മ നടന്നുനീങ്ങുകയാണ് അവസാനഘട്ടത്തിൽ അമ്മ ജോലി ചെയ്യുവാൻ നടന്നുനീങ്ങുന്നു അമ്മയുടെ സവാരി നല്ലതായിരുന്നു സന്തോഷത്തോടെ ജോലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അമ്മയുടെയാത്രയിലെ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു ഒന്നാമത്തെ കാര്യം ഒരു scarf ധരിക്കുവാൻഅമ്മയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ ഹെൽമറ്റ് സ്ട്രാപ്പ് ഇടാൻ നമ്മൾ നിരീക്ഷകരെ കാര്യങ്ങൾ എഴുതി വയ്ക്കുക അതുപോലെ വളരെയധികം വെയിലടിച്ചപോൾ വിയർപ്പ് ഉണ്ടാവും അതുപോലെ മുടി നഷ്ടപ്പെടുന്നു പൊടിപടലങ്ങൾ ശ്വാസകോശസംബന്ധമായ രോഗങ്ങളും ഉണ്ടാക്കുന്നു ഹെൽമറ്റ് വെച്ചുകൊണ്ട് ഒരു ഭാരമുള്ള ബൈക്ക് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എല്ലാ പ്രശ്നങ്ങളും എഴുതി വച്ചിട്ടുണ്ട് വളരെയധികം സൊലൂഷൻ ലഭിക്കുന്നതാണ്

ഞാനിത് ഇറ്റലിയിലെ ഒരു ക്ലാസിൽ ചെയ്തിട്ടുണ്ട് വളരെ കഠിനമായി ജോലി ചെയ്തു എൻറെ ടീമിനും നല്ല സമയമായിരുന്നു കസ്റ്റമർ ജേർണി മാപ്പിംഗ് നോക്കുക കസ്റ്റമേഴ്സിനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് വളരെയധികം സ്റ്റിക്കി നോട്ട്സ് ലഭിക്കുന്നതാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് എൻറെ നിരീക്ഷണങ്ങൾ നോക്കുക ഞങ്ങൾ പുതിയ കമ്പനിയുടെ ആപ്പ് നോക്കുന്നു എൻറെ എല്ലാ വീക്ഷണങ്ങളും ഞങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ മറ്റൊരു ഉദാഹരണത്തിന് പോവുകയാണ് ആരോ ഒരാൾ കുട്ടിയുടെ കൂടെ ടോയ്ലറ്റ് അല്ലെങ്കിൽ കുളിമുറി അന്വേഷിക്കുകയാണ് അന്വേഷിക്കാൻ നഗരത്തിൽ ഓരോ മധ്യ വയസ്സുള്ള അമ്മയും അഞ്ചു വയസ്സായ കുട്ടിയുമാണ് ജോഗ്രഫി എല്ലാം വിശദമായി കൊടുത്തിരിക്കുന്നു കസ്റ്റമർ 6 steps കൂടെ കടന്നു പോകുന്നു അമ്മയും കുട്ടിയും കൂടെ പോന്നു നമുക്ക് ഓരോ ഘട്ടത്തിലും ഉള്ള വൈകാരികാവസ്ഥമനസ്സിലാക്കാൻ പറ്റും ഒരു കസ്റ്റമർ ജേർണി മാപ്പിംഗ് ഉണ്ടാക്കുവാൻ ചില generic steps നിങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ് ആദ്യത്തെ കാര്യം വയസ്സാണ് ഒരു ഭൌതിക വയസ്സ് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ് അടുത്ത കാര്യം ജോഗ്രഫി ജോഗ്രഫി നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ് കസ്റ്റമർ പെറ്റി മനസ്സിലാക്കുന്നതിനുവേണ്ടി ഇതാണ് കസ്റ്റമർ ജേർണി മാപ്പിംഗ് എന്നതിൻറെ 6 steps ഇത് വളരെ സങ്കീർണ്ണമായ തോന്നും എന്നാൽ ഇത് സങ്കീർണമായ ഒരു കാര്യമല്ല വളരെ ലളിതമായ കാര്യമാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ അനുഭവം കസ്റ്റമർ എന്ന വ്യക്തിയെ സംബന്ധിച്ച നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രയോജനപ്പെടുത്തുകയാണ് അങ്ങനെ ടീം എല്ലാം മറ്റുള്ളവരുടെ ചോദിക്കുക എന്നിട്ടേ എല്ലാം വീക്ഷണങ്ങളെയും ഒരു സമയ ക്രമം അനുസരിച്ച് ക്രമീകരിക്കുക മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് എല്ലാം വീക്ഷണങ്ങളെയും ഒരു സമയക്രമം അനുസരിച്ച് ക്രമീകരിക്കുക എന്നുള്ളത് നാലാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ആദ്യഘട്ടത്തിൽ ചെയ്തതാണ് നിങ്ങൾ ഫീൽഡിൽ പോയി ശരിക്കുള്ള കസ്റ്റമർ എന്ന വ്യക്തിയോട് കാര്യങ്ങൾ ചോദിക്കുക സ്റ്റെപ്പ് അതാണ് നാലാമത്തെ സ്റ്റോപ്പ് ഞാൻ എങ്ങനെയാണ് Mrs Avni എന്ന വ്യക്തിയിൽ എത്തിച്ചേർന്നത് അതുപോലെ അടുത്ത കാര്യം നോക്കേണ്ടത് വൈകാരികമായ സ്ഥിതി എങ്ങനെയാണ് വൈകാരികമായി വളരെ താഴ്ന്ന കാര്യം നോക്കണം ഇതെല്ലാം നിങ്ങളുടെ സ്റ്റിക്കി നോട്ടിൽ മാർക്ക് ചെയ്യുക കസ്റ്റമർ ജേർണി മാപ്പിംഗ്തയ്യാറായിരിക്കുന്നു താങ്ക്യൂ